കോണിക് സെക്ഷൻസ് IX എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് നമ്മൾ മൊഡ്യൂൾ നമ്പർ 2 ലെക്ചർ 17 ലാണ് നിൽക്കുന്നത് നമ്മൾ കോണിക് സെക്ഷൻസുകളെക്കുറിച്ച് പഠിക്കുന്നു ഈ മൊഡ്യൂളിൽ ഒരു അണ്ഡവൃത്തവും പരാബോളയും എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾ ഇതിനകം വിശദീകരിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഹൈപ്പർബോള എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾ പഠിക്കും ഹൈപ്പർബോള നിർമ്മിക്കുന്നതിന് രണ്ട് രീതികളുണ്ട് ഒന്ന് ഫോക്കസ് ഡയറക്ട്രിക്സ് രീതി മറ്റൊന്ന് ദീർഘചതുരം രീതി നമ്മൾ ഫോക്കസ് ഡയറക്ട്രിക്സ് രീതിയെക്കുറിച്ച് പഠിക്കാൻ പോകുന്നു ഫോക്കസ് ഡയറക്ട്രിക്സ് രീതി ഓർമ്മിക്കുകയാണെങ്കിൽ ഒരു ഡയറക്ട്രിക്സ് ഉണ്ട് ഈ ഡയറക്ട്രിക്സിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിൽ ഒരു ഫോക്കസ് ഉണ്ട് എക്സെന്ട്രിസിറ്റി 1 നെക്കാൾ വലുതാകുമ്പോൾ ഉദാഹരണത്തിന് എക്സെന്ട്രിസിറ്റി 2 ആണെങ്കിൽ ഇത് ഒരു ഹൈപ്പർബോള നിർമ്മിക്കുന്നു എക്സെന്ട്രിസിറ്റിയുടെയും ഡയറക്ട്രിക്സിൽ നിന്നുള്ള ഫോക്കസിന്റെയും അടിസ്ഥാന നിർവചനം എന്തെന്നാൽ ഫോക്കസിൽ നിന്ന് ആ കർവ് ഹൈപ്പർബോളയിലെ ഏതെങ്കിലും പോയിന്റ് അളക്കാൻ പോകുന്നുവെങ്കിൽ ആ പോയിന്റിലേക്കുള്ള ദൂരവും ഡയറക്ട്രിക്സിലേക്കുള്ള ദൂരവും എല്ലായ്പ്പോഴും ഒരേ സംഖ്യയ്ക്ക് തുല്യമാണ് ഉദാഹരണത്തിന് ഉത്കേന്ദ്രത 2 ആണെങ്കിൽ നമുക്ക് ഈ പോയിന്റ് പി ഫോക്കസിൽ നിന്ന് ആ പോയിന്റിലേക്കും അവിടെ നിന്ന് ഡയറക്ട്രിക്സിലേക്കും തുല്യ അനുപാതം 2 ആയിരിക്കും അത് ഈ പോയിന്റോ ഈ പോയിന്റോ ഏതെങ്കിലും പോയിന്റോ ആകാം ഈ തത്വം ഉപയോഗിച്ച് നമ്മൾ ഒരു ഹൈപ്പർബോള നിർമ്മിക്കാൻ പോകുന്നു അതിനാൽ ഫോക്കസ് ഡയറക്ട്രിക്സ് രീതി ഉപയോഗിച്ച് ഈ ഹൈപ്പർബോളയുടെ നിർമ്മാണത്തിന് ശേഷം നമ്മൾ ഈ കർവിൽ അവസാനിക്കും ഇത് എങ്ങനെ നിർമ്മിക്കാമെന്ന് ഘട്ടം ഘട്ടമായി നമുക്ക് നോക്കാം ആദ്യം ഡയറക്ട്രിക്സ് എബി യും ആക്സിസ് സിസി' CC' യും വരയ്ക്കുക ആദ്യം നമ്മൾ എബി വരയ്ക്കണം കൂടാതെ സിസി' CC' വരയ്ക്കണം അത് ചെയ്തുകഴിഞ്ഞാൽ സിസി' CC' ൽ ഫോക്കസ് പോയിന്റ് എഫ് അടയാളപ്പെടുത്തുക അതിനാൽ എവിടെയെങ്കിലും സിയിൽ നിന്ന് 50 മില്ലിമീറ്റർ വരത്തക്ക രീതിയിൽ എഫ് അടയാളപ്പെടുത്തണം അതോടെ 50 മില്ലീമീറ്റർ അത് കണ്ടെത്തുക അത് ചെയ്തുകഴിഞ്ഞാൽ സിഎഫി നെ 5 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക നമ്മൾ എക്സെന്ട്രിസിറ്റി 2 ന്റെ ഒരു ഹൈപ്പർബോള നിർമ്മിക്കാൻ പോകുന്നു അതിനാൽ ആദ്യം സി മുതൽ എഫ് വരെ ഉള്ള ദൂരം 5 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക അങ്ങനെ എക്സെന്ട്രിസിറ്റി 32 ആണ് അതായത് 1 5 ആണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് അതിനാൽ ഇത് 5 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചുകഴിഞ്ഞാൽ നമ്മൾ V പോയിന്റ് കണ്ടെത്താൻ പോകുന്നു അതിനാൽ സി മുതൽ വി വരെ 2 യൂണിറ്റുകളും വി മുതൽ എഫ് വരെ 3 യൂണിറ്റുകളുമാണ് ഈ രീതിയിൽ നമ്മൾ സി മുതൽ എഫ് വരെ ഉള്ള ഭാഗത്തെ തുല്യമായി വിഭജിക്കുന്നു അത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ വി എഫ് ന് തുല്യമായ ഒരു ലംബ രേഖ VG വരയ്ക്കുന്നു അത് V പോയിന്റിലൂടെ കടന്നുപോകും അതിനാൽ വി പോയിന്റിൽ നിന്ന് വി മുതൽ എഫ് ദൂരവും വി മുതൽ ജി ദൂരവും തുല്യമാകുന്ന രീതിയിൽ ലംബ രേഖ വരയ്ക്കുക തുടർന്ന് ജി സി G C എന്നിവ ആ രീതിയിൽ ചേർക്കുക തുടർന്ന് വിസി യിൽ 1 2 3 പോയിന്റുകൾ അടയാളപ്പെടുത്തുക നമുക്ക് വി പോയിന്റ് അറിയാം സിസി' CC' പോയിന്റും അറിയാം അതിനാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനെ നിരവധി ഭാഗങ്ങളായി വിഭജിക്കുക എന്നതാണ് ഇവ ഏകപക്ഷീയമായ പോയിന്റുകളാണ് ഈ പോയിന്റുകളിൽ നിന്ന് ലംബ രേഖകൾ ആ രീതിയിൽ വരയ്ക്കുക ഈ രേഖകൾ വിപുലീകരിച്ച രേഖ സിജി യെ 1' 2' 3' 4' പോയിന്ററുകളിൽ വിഭജിക്കാൻ പോകുന്നു അതിനാൽ പോയിന്റ് 1 കണ്ടെത്തുക അപ്പോൾ ഇത് എവിടെയാണ് വിഭജിക്കുന്നത് അതായത് 1 1' 2 2' 3 3' 4 4' ഇപ്പോൾ ആദ്യം 1 1' അളക്കുക ഫോക്കൽ പോയിന്റിൽ നിന്ന് 1 1' ദൂരം ഉപയോഗിച്ച് ഒരു ആർക്ക് ഉണ്ടാക്കുക അതുപോലെ ഫോക്കൽ പോയിന്റിൽ നിന്ന് 2 2' ന്റെ ഒരു ആർക്ക് ഉണ്ടാക്കുക അതുപോലെ തന്നെ ഫോക്കസ് പോയിന്റിൽ നിന്ന് 3 3' എന്ന ആർക്ക് ഉണ്ടാക്കുക അത് ചെയ്തുകഴിഞ്ഞാൽ ഈ പോയിന്റിലൂടെ കടന്നുപോകുന്ന എല്ലാ വഴികളിലും നമുക്ക് V ൽ ചേർക്കാനാകും അതിനാൽ നമുക്ക് ആ ഹൈപ്പർബോള ഇങ്ങനെ നിർമ്മിക്കാൻ കഴിയും ഘട്ടം ഘട്ടമായി നമ്മുടെ ഷീറ്റിൽ അത് ചെയ്യാം ആദ്യം നമ്മൾ എ ബി രേഖയും പിന്നെ സി സി' CC' രേഖയും വരയ്ക്കണം അതിനാൽ നമുക്ക് ഡയറക്ട്രിക്സ് എബി നിർമ്മിക്കാം എ ബി A B എന്നിവ അടയാളപ്പെടുത്തി മധ്യത്തിൽ നിന്ന് ലംബമായ തിരശ്ചീന രേഖ വരയ്ക്കുക അങ്ങനെ നമുക്ക് സിസി' CC' നിർമ്മിക്കാൻ കഴിയും അതിനാൽ നമുക്ക് ഇതിനെ സിസി' CC' എന്ന് വിളിക്കാം ഇത് പോയിന്റ് സി ആണ് ഈ പോയിന്റ് സി' C' ആണ് അതിനാൽ നമ്മൾ രണ്ട് ലംബ നിർമ്മാണ രേഖകൾ നിർമിച്ചു ഇപ്പോൾ സി എഫ് 50 മില്ലീമീറ്ററിന് തുല്യമായ രീതിയിൽ സിസി' CC' ൽ എഫ് അടയാളപ്പെടുത്തുക അതിനാൽ ഷീറ്റിൽ 50 മില്ലീമീറ്റർ എവിടെയെങ്കിലും കണ്ടെത്തുക അതിനാൽ ഈ പോയിന്റിനെ ഫോക്കസ് പോയിന്റായി അടയാളപ്പെടുത്തുക അത് ചെയ്തുകഴിഞ്ഞാൽ അതിനെ 5 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക അതിനാൽ നമുക്ക് 5 തുല്യ ഭാഗങ്ങളുണ്ട് ഒന്നാമത് രണ്ടാമത് മൂന്നാമത് നാലാമത് അഞ്ചാമത് അതിനാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ V കണ്ടെത്തുക 1 5 അനുപാതം അല്ലെങ്കിൽ 32 അനുപാതം ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നു ഫോക്കസ് പോയിന്റ് മുതൽ കർവ് V വരെയുള്ള പോയിന്റ് 3 യൂണിറ്റുകളും V മുതൽ ഡയറക്ട്രിക്സ് വരെ 2 യൂണിറ്റുകളുമാണ് അതിനാൽ നമ്മൾ അതിൽ 32 യൂണിറ്റുകൾ നിർമ്മിക്കാൻ പോകുന്നു വി പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ അതിലൂടെ കടന്നുപോകുന്ന ഒരു ലംബ രേഖ നിർമ്മിക്കാൻ നമുക്ക് കഴിയും അതിനാൽ ഈ ലംബ രേഖ നിർമ്മിക്കാനുള്ള ഒരു പോയിന്റ് ഉണ്ടാകും ഇപ്പോൾ ഈ ലൈനിൽ വി ജി ക്ക് തുല്യമായ നീളം വി എഫ് അടയാളപ്പെടുത്തുക ഇപ്പോൾ വി ജി V G എന്നിവ ചേർക്കുക നിർമ്മാണ രേഖ സി മുതൽ ജി വരെ ഇരുവശത്തും നീട്ടി നിർമ്മിക്കുക അത് ചെയ്തുകഴിഞ്ഞാൽ വിസി യിൽ 1 2 3 പോയിന്റുകൾ നമ്മൾ കണ്ടെത്തണം അതിനാൽ ഇവിടെ എവിടെയെങ്കിലും കുറച്ച് പോയിന്റുകൾ അടയാളപ്പെടുത്താം 1 2 3 4 5 6 7 8 9 10 11 12 13 14 എന്നിവ ആയിരിക്കാം ഇവയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഈ പോയിന്റുകൾ അടയാളപ്പെടുത്താൻ നമ്മുടെ റോളർ സ്കെയിൽ ഉപയോഗിക്കാം കുറച്ച് വരികൾ കൂടി വരയ്ക്കുക ഇത് എല്ലായ്പ്പോഴും തിരശ്ചീനമാണെന്ന് ഉറപ്പാക്കുക അതിനാൽ കൂടുതൽ വരികൾ വരയ്ക്കേണ്ട അവസ്ഥയിലായിരിക്കും നമ്മൾ അത് ചെയ്തുകഴിഞ്ഞാൽ അവ വിഭജിക്കാൻ പോകുന്ന ലംബ നീളങ്ങൾ കൈമാറ്റം ചെയ്യണം ഇത് തിരഞ്ഞെടുക്കുക ഈ വിഭജന പോയിന്റുകളെ 1' 2' 3' 4' 5' 6' എന്നിങ്ങനെ അടയാളപ്പെടുത്താം എന്തായാലും ഏഴാമത്തെ പോയിന്റ് 7' നിർമ്മിക്കാൻ പോകുന്നു ഇപ്പോൾ ഈ നീളങ്ങൾ ഫോക്കൽ പോയിന്റിൽ നിന്ന് വിഭജിക്കുന്നതിനായി മാറ്റുക ഇന്റർസെക്ഷൻ പോയിന്റ് 1 കണ്ടെത്തുക പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ ഈ പോയിന്റ് രണ്ടാമത്തെ പോയിന്റിലേക്ക് മാറ്റുക രണ്ടാമത്തെ പോയിന്റ് ഇവിടെയും മൂന്നാമത്തെ പോയിന്റ് ഇവിടെയും ആണ് അതുപോലെ ഈ 6 പോയിന്റിൽ നിന്ന് ആ പോയിന്റുമായി വിഭജിക്കുന്നു ഈ പോയിന്റുകളെല്ലാം നമ്മൾ നിർമ്മിക്കുന്ന രീതിയാണിത് ഇപ്പോൾ ഈ പോയിന്റുകളെല്ലാം ചേർക്കുക നമുക്ക് ഒരു ഹൈപ്പർബോള ലഭിക്കുന്നു അത് വളരെ വേഗത്തിൽ അതിന്റെ വക്രതയും ഇവിടെ നിന്നുള്ള ചരിവും മാറുന്നു അതിനാൽ കൂടുതൽ പോയിന്റുകൾ ഉള്ളതിനാൽ നമുക്ക് അവിടെ വളരെ സുഗമമായ ഒരു കർവ് ഉണ്ടാക്കാൻ കഴിയും അതിനാൽ നമുക്ക് ഈ പോയിന്റുകളിലൂടെ ഒരു സുഗമമായ കർവ് നിർമിക്കാം ആ കർവ് ന്റെ ഒരു ഭാഗം നിർമ്മിക്കുന്ന രീതിയാണിത് നമുക്ക് ഇതിനെ ഹൈപ്പർബോള എന്ന് വിളിക്കാം ഈ വരികൾ താഴേക്ക് നീട്ടിക്കൊണ്ട് സമാന നീളങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് കഴിയും ഉദാഹരണത്തിന് നമുക്ക് ഇത് തിരഞ്ഞെടുക്കാം സമാനമായി ഈ രേഖ തിരഞ്ഞെടുക്കാം ഈ നീളങ്ങൾ ലംബ അക്ഷത്തിൽ കൈമാറുക സമമിതി ഉള്ളത് കാരണം നമുക്ക് ഈ ദൈർഘ്യം കൈമാറാൻ കഴിയും അല്ലാത്തപക്ഷം ഫോക്കൽ പോയിന്റിൽ നിന്ന് വീണ്ടും അത്തരം നീളങ്ങൾ ഉണ്ടാക്കി കൈമാറ്റം ചെയ്യണം അതുപോലെ ഈ വരികളും 1 മുതൽ നീട്ടുക അത്തരം നീളങ്ങൾ നിർമ്മിക്കുന്നതിന് ഒരു റോളർ സ്കെയിൽ ഉപയോഗിക്കുക അത് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ ചേർക്കാനാകും ഇങ്ങനെ ആണ് നമ്മൾ ഒരു ഹൈപ്പർബോള നിർമ്മിക്കുന്നത് അതിനാൽ അണ്ഡവൃത്തം പരാബോള ഹൈപ്പർബോള തുടങ്ങിയ രസകരമായ വക്രങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ടു ഒരു കോണിൽ നിന്ന് ഉത്ഭവിക്കുന്ന കർവുകളാണിവ നമ്മൾ അവയെ സാധാരണയായി കോണിക് വിഭാഗങ്ങളായി വിളിക്കുന്നു ഇപ്പോൾ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന പ്രത്യേക വക്രങ്ങൾ പരിശോധിക്കാൻ പോകുന്നു സൈക്ലോയിഡുകൾ സ്പൈറലുകൾ ഇൻവലിയൂട്ടുകൾ ഹെലിക്സ് എന്നിവയാണ് ഇവ ആദ്യത്തേത് ഒരു സൈക്ലോയിഡാണ് നമ്മൾ ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് ഒരു സർക്കിൾ തിരഞ്ഞെടുക്കാം ചുവടെ സ്പർശിക്കാൻ പോകുന്ന ആദ്യത്തെ പോയിന്റ് പി nകണ്ടെത്തുക സർക്കിൾ ഒരു പരന്ന തിരശ്ചീന അടിത്തറയിൽ ഉരുളുകയും അത് തികച്ചും തിരശ്ചീനമായ ഈ അടിത്തറയിൽ ഉരുളുകയും ഈ പി പോയിന്റ് ഒരിക്കലും വഴുതിവീഴുകയും ചെയ്യുന്നില്ലെങ്കിൽ ഈ പി പോയിന്റിലെ ചലനം വൃത്തമായി ഉരുട്ടിക്കൊണ്ടിരിക്കുന്നതെന്തും നമ്മൾ അതിനെ സൈക്ലോയിഡ് എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് അടുത്ത നിമിഷത്തിൽ ഈ പി പോയിന്റ് അവിടെ എവിടെയെങ്കിലും എത്തുന്നു ഈ സർക്കിൾ മുഴുവൻ ഉരുളുന്നു അതിനാൽ പി സ്ഥാനത്ത് പെൻസിലോ പേനയോ ഉപയോഗിച്ച് ട്രാക്കു ചെയ്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ട്രാക്കിനെ സൈക്ലോയിഡ് എന്ന് വിളിക്കുന്നു ഗണിതശാസ്ത്ര തലത്തിൽ x കോർഡിനേറ്റുകളും y കോർഡിനേറ്റുകളും നോക്കുകയാണെങ്കിൽ x a എന്ന പാരാമെട്രിക് രൂപത്തിൽ ഇതിനെ പ്രതിനിധീകരിക്കും ഇവിടെ t എന്നത് സമയമോ പാരാമെട്രിക് വ്യതിയാനമോ ആണ് അതുപോലെ y a ആണ് അതിനാൽ ഈ x കോർഡിനേറ്റും y കോർഡിനേറ്റും സംബന്ധിച്ചു എന്താണ് ഈ പാരാമെട്രിക് സമവാക്യങ്ങളിൽ നിന്ന് നമുക്ക് അത് ലഭിക്കാൻ പോകുകയാണ് അതിനെയാണ് നമ്മൾ സൈക്ലോയിഡുകൾ എന്ന് വിളിക്കുന്നത് സ്പൈറലുകൾ അവ കേന്ദ്രത്തിൽ എവിടെയോ ആരംഭിക്കുന്നു ആ അർത്ഥത്തിൽ ആർക്കിമിഡിയൻ സ്പൈറലുകൾ വളരെ ജനപ്രിയമാണ് ആംഗിൾ കൂടുന്നതിനനുസരിച്ച് ആരവും കൂടുന്നു അതിനാൽ നമ്മൾ 0⁰ മുതൽ ആരംഭിക്കുകയാണെങ്കിൽ അത് 360⁰ എത്തുവാൻ 10 20 30 ആയി വർദ്ധിക്കുന്നു ക്രമേണ ആരവും വർദ്ധിക്കുന്നു ഈ കർവിനെ നമ്മൾ എങ്ങനെ നീക്കാൻ പോകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ആരം കൂട്ടാനോ കുറയ്ക്കാനോ കഴിയും നമ്മൾ പുറത്തേക്ക് നീങ്ങുകയാണെങ്കിൽ ആരം വർദ്ധിക്കുന്നു നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ആരം കുറയുന്നു ഇത്തരത്തിലുള്ളവയെ സ്പൈറലുകൾ എന്ന് വിളിക്കുന്നു സ്പൈറലുകളുടെ പാരാമെട്രിക് രൂപം r aθ ആണ് θ കൂടുന്നതിനനുസരിച്ച് r കൂടും ഒരു പോസിറ്റീവ് നിശ്ചയത്തിനായി a യുടെ മൂല്യം വർദ്ധിക്കുകയും നെഗറ്റീവ് നിശ്ചയത്തിനായി a യുടെ മൂല്യം കുറയുകയും ചെയ്യുന്നു പ്രത്യേക കർവിന്റെ മറ്റൊരു രൂപത്തെ ഇൻവലിയൂട്ടുകൾ എന്ന് വിളിക്കുന്നു നമ്മൾ ഒരു സിലിണ്ടറിന് ചുറ്റും ഒരു ത്രെഡ് അല്ലെങ്കിൽ കയർ ചുറ്റുന്നുവെന്ന് കരുതുക അതിനാൽ നമുക്ക് നിശ്ചിത നീളമുള്ള ഒരു കയർ എടുത്ത് സിലിണ്ടറിന്റെ ഒരു വശത്ത് ബന്ധിക്കുക ഇപ്പോൾ സിലിണ്ടർ കറക്കുക കയറിന്റെ നീളം തുടർച്ചയായി സർക്കിളിലോ സിലിണ്ടറിലോ പറ്റിനിൽക്കാൻ ശ്രമിക്കുകയും ഒപ്പം കയറിന്റെ വ്യക്തമായ നീളം തുടർച്ചയായി കുറയുകയും ചെയ്യുന്നു ഈ കയറിന്റെ അറ്റങ്ങളിൽ ഒന്ന് ട്രാക്കു ചെയ്ത വളവുകളെ ഇൻവലിയൂട്ടുകൾ എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് ഇതാണ് സിലിണ്ടർ ഇത് രണ്ട് അളവിലുള്ള സിലിണ്ടർ സർക്കിളാണെന്ന് നമുക്ക് പരിഗണിക്കാം ഇത് നമ്മൾ അവിടെ കെട്ടിയിരിക്കാം ഇപ്പോൾ ഈ സിലിണ്ടറിനെ കറക്കുക അതിനാൽ P പോയിന്റ് ഈ കയറിൽ ചുറ്റിയിരിക്കാം അതിനാൽ P പോയിന്റ് ഒരു പ്രത്യേക പാതയിൽ നീങ്ങുന്നു ക്രമേണ കയറിന്റെ അറ്റത്തിൽ നിന്നും സിലിണ്ടറിന്റെ ആ അറ്റത്തേക്കുള്ള ദൂരം കുറയുകയും അത് ഉൾപ്പെടുന്ന കർവിനെ ഇൻവലിയൂട്ടുകൾ എന്ന് വിളിക്കുന്നു മറ്റുള്ളവ ഹെലിക്സ് ആണ് ഉദാഹരണത്തിന് ഒരു വൃത്താകൃതിയിലുള്ള ഫോർമാറ്റിൽ പോകുന്ന ഒരു പോയിന്റ് ഇവിടെയുണ്ട് എന്നാൽ ഇതിന് അക്ഷീയ ചലനവും ഉള്ളതിനാൽ അത് മുകളിലേക്കുള്ള ദിശയിലേക്ക് ഉയരുന്നു സാധാരണഗതിയിൽ ചെറിയ വലിപ്പത്തിലുള്ള വായു കുമിളകൾ കോക്ക് ബോട്ടിലുകളിലോ അല്ലെങ്കിൽ വാട്ടർ ബേക്കറുകളിലോ ഉയരുമ്പോൾ അവ ഇത്തരത്തിലുള്ള സ്പൈറലുകൾ ഉണ്ടാക്കുന്നു ഇത് ഒരു വൃത്തമാണ് അത് അക്ഷീയ ദിശയിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നു അത്തരം കാര്യങ്ങളെ ഹെലിക്സ് എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ ഒരു പേന തുറക്കുകയാണെങ്കിൽ അതിൽ ഒരു സ്പ്രിംഗ് കണ്ടെത്താം ഈ സ്പ്രിംഗ്കൾക്ക് എല്ലായ്പ്പോഴും സ്ഥിരമായ ദൂരം ഉണ്ട് അവ അച്ചുതണ്ടിന്റെ ദിശയിൽ തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അവ ആ അക്ഷീയ ദിശയിലേക്ക് നീങ്ങുന്നു അത്തരം കാര്യങ്ങളെ നമ്മൾ ഹെലിക്സ് എന്ന് വിളിക്കുന്നു സ്പൈറലുകളിൽ ആരം തുടർച്ചയായി വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുന്നു ഹെലിക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ആരം ഏതാണ്ട് സ്ഥിരമാണ് പക്ഷേ അക്ഷീയ ദിശകളിൽ z ആക്സിസ് വർദ്ധിക്കുന്നു അടുത്ത ക്ലാസ്സിൽ സൈക്ലോയിഡുകൾ സ്പൈറലുകൾ ഇൻവലിയൂട്ടുകൾ ഹെലിക്സ് എന്നിവ പോലുള്ള പ്രത്യേക കർവുകൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾ പഠിക്കും അടുത്ത ക്ലാസ്സിൽ കാണാം